അതിനാൽ ഒരു ട്രാൻസിസ്റ്ററിൻറെ രണ്ട് തരം ബയസിങ് ആവശ്യമുള്ള വൈദ്യുതധാരയിൽ ചർച്ചചെയ്തു ഒരു സാഹചര്യത്തിൽ ഡ്രെയിൻ ടെർമിനലിലെ ആവശ്യമുള്ള വൈദ്യുതധാരകളും യഥാർത്ഥ വൈദ്യുതധാരകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സെൻസ് ചെയ്യുകയും ഗേറ്റിൽ ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യുന്നു മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ വ്യത്യാസം സെൻസ് ചെയ്യുന്നത് സോഴ്സ് ടെർമിനലിലും ഫീഡ്ബാക്ക് സോഴ്സിൽ നൽകുകയും ചെയ്യുന്നു സാധ്യമായ രണ്ട് തരങ്ങൾ കൂടി ഉണ്ട് അവയിലൊന്ന് ഡ്രെയിനിൽ സെൻസ് ചെയ്യുകയും സോഴ്സ് ടെർമിനലിൽ ഫീഡ്ബാക്ക് നൽകുകയും ആണ് അതിനാൽ ട്രാൻസിസ്റ്റർ ഉണ്ടെന്ന് പറയാം സോഴ്സ് ടെർമിനലിലേക്ക് തിരികെ ഫീഡ്ബാക്ക് നൽകുന്നതിനാൽ ഗേറ്റ് ഒരു നിശ്ചിത വോൾട്ടേജ് VG0 ൽ സൂക്ഷിക്കുന്നു ഇപ്പോൾ ഡ്രെയിനിലെ കറന്റ് വ്യത്യാസം മനസിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ID ഉണ്ട് അതിനാൽ കറന്റ് വ്യത്യാസം മനസിലാക്കാൻ നമ്മൾ കറന്റ് സോഴ്സ് I0 നെ ബന്ധിപ്പിക്കുന്നു ഈ ഗേറ്റ് വിതരണ വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ തിരിച്ചെത്തി ഡ്രെയിൻ നോഡിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കുന്നു പക്ഷേ ഇതാണ് സോഴ്സ് വോൾട്ടേജ് Vs അതിനാൽ ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ യഥാർത്ഥ ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ള കറന്റിനേക്കാൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ VGS കുറയ്ക്കണം നമ്മൾ VGS കുറച്ചാൽ ഡ്രെയിൻ കറൻറ് കുറയും ഇപ്പോൾ VGS VGo Vs ന് തുല്യമാണ് അതിനാൽ ഇതിനർത്ഥം VGS കുറയ്ക്കുന്നതിന് നമ്മൾ Vs വർദ്ധിപ്പിക്കണം എന്നാണ് അതുപോലെ ID വളരെ ചെറുതാണെങ്കിൽ ID I0 നേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഡ്രെയിൻ കറന്റ് വർദ്ധിപ്പിക്കണം കൂടാതെ Vs ന്റെ മൂല്യം കുറച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യും അതിനാൽ സോഴ്സിൽ നമുക്ക് വേണ്ടത് ഇതാണ് ഇപ്പോൾ ഡ്രെയിനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് I0 ഉം ID യും തമ്മിലുള്ള വ്യത്യാസം ഈ കപ്പാസിറ്റർ Cp യിലേക്ക് ഒഴുകുന്നു അതിൽ ഈ നോഡിലെ പാരാസൈറ്റിക് കപ്പാസിറ്റർ ഉണ്ട് ഇപ്പോൾ ID വളരെ വലുതാണെങ്കിൽ ID I0 നേക്കാൾ വലുതാണെങ്കിൽ ഈ കറന്റ് നെഗറ്റീവ് ആയിരിക്കും ഈ കപ്പാസിറ്ററിന്റെ ടോപ്പ് ലീഡിൽ നിന്ന് കറന്റ് പുറത്തെടുക്കും അതിനാൽ ID I0 നേക്കാൾ കൂടുതലാണെങ്കിൽ ഡ്രെയിൻ വോൾട്ടേജ് VD കുറയുന്നു ID I0 നേക്കാൾ കുറവാണെങ്കിൽ ഡ്രെയിൻ വോൾട്ടേജ് വർദ്ധിക്കും ഡ്രെയിൻ കറന്റ് ആവശ്യമുള്ളതിനേക്കാൾ വലുതാണെന്നതിന്റെ സൂചനയാണ് VD കുറയുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ Vs വർദ്ധിപ്പിക്കണം അതിനാൽ സോഴ്സിൽ നമുക്ക് ആവശ്യമുള്ള മാറ്റത്തിന്റെ അർത്ഥം ഡ്രെയിനിൽ സംഭവിക്കുന്നതിനു വിപരീതമാണ് അതിനാൽ VD കുറയുകയാണെങ്കിൽ നമ്മൾ VS വർദ്ധിപ്പിക്കണം VD വർദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ VS VD ഇത് കുറയ്ക്കുന്നു ഇതിനർത്ഥം ID I0 നേക്കാൾ വലുതാണെന്നും VS വർദ്ധിക്കണം എന്നുമാണ് അതുപോലെ VD വർദ്ധിക്കുകയാണെങ്കിൽ ID I0 നേക്കാൾ ചെറുതാണെന്നും ഇത് കുറയണമെന്നും അർത്ഥമാക്കുന്നു അതിനാൽ ഇത് എങ്ങനെ നിർവഹിക്കും ശരിക്കും ഉദ്ദേശിച്ചത് അതിന്റെ ഇൻപുട്ട് എടുക്കുന്ന ചില ബ്ലോക്കുകളാണ് ഇൻപുട്ട് എന്നത് ഡ്രെയിൻ വോൾട്ടേജാണ് ഇവ ഔട്ട്പുട്ട് നൽകുന്നു അത് സോഴ്സ് വോൾട്ടേജാണ് ഇതിന് ഈ സ്വഭാവം ഉണ്ടായിരിക്കണം അതായത് VD കുറയുകയാണെങ്കിൽ VS വർദ്ധിക്കണം അതിനാൽ ഇവയെല്ലാം ഈ ബ്ലോക്കിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനലുകളാണെന്ന് പറയട്ടെ അപ്പോൾ ഔട്ട്പുട്ടിനെതിരെയുള്ള ഇൻപുട്ടിലെ വോൾട്ടേജും ഇതുപോലുള്ള ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം അതായത് ഈ Vin വർദ്ധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സോഴ്സിലേക്ക് നയിക്കപ്പെടുന്ന Vout കുറയുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിന് നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിൻ ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ചില ബ്ലോക്ക് ഉപയോഗിച്ച് സോഴ്സ് ഡ്രൈവ് ചെയ്യണം അത് ഡ്രെയിൻ വോൾട്ടേജാൽ നയിക്കപ്പെടുന്നു ഇതിന് നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗൈൻ ഉണ്ടായിരിക്കണം അതിനാൽ വ്യതിയാനം സെൻസ് ചെയ്താൽ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കണം അതിനാൽ ഇത് നമ്മുടെ യഥാർത്ഥ കേസിനേക്കാൾ അല്പം സങ്കീർണ്ണമാണ് നമ്മൾ ചർച്ച ചെയ്ത ആദ്യ കേസിൽ നമ്മൾ ഡ്രെയിനിൽ സെൻസ് ചെയ്യുകയും ഗേറ്റിൽ ഫീഡ്ബാക്ക് നല്കുകയും ചെയ്തു നമുക്ക് ഗേറ്റിൽ ആവശ്യമുള്ള വ്യതിയാനം കൃത്യമായി ഡ്രെയിനിൽ ലഭിക്കുന്നതായിരുന്നു അതിനാൽ പൊതുവായി പോസിറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിൻ ഉപയോഗിച്ച് നമ്മൾക്ക് ഇത് ബന്ധിപ്പിക്കാൻ കഴിയും നേരിട്ടുള്ള കണക്ഷൻ പോലും ശരിയായിരുന്നു അതേസമയം ഈ സാഹചര്യത്തിൽ നേരിട്ടുള്ള കണക്ഷൻ തീർച്ചയായും പ്രവർത്തിക്കില്ല കൂടാതെ ഡ്രെയിൻ സോഴ്സ് തമ്മിൽ നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിൻ ആവശ്യമാണ് അതിനാൽ ഇത് കുറച്ചുകൂടി സങ്കീർണ്ണമായതിനാൽ സാധാരണ കോമൺ സോഴ്സ് ആംപ്ലിഫയറിനായി നമ്മൾ ഇത് ഉപയോഗിക്കില്ല പക്ഷേ ഈ ഘടനകൾ സർക്യൂട്ടുകളിൽ പലയിടത്തും സംഭവിക്കുന്നു ഇത് എങ്ങനെ നിർവഹിക്കാമെന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഇത് VG0 ആണ് ഗേറ്റിലെ ബയസ് വോൾട്ടേജ് ഇത് I0 ആണ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇത് എടുത്ത് ഇതിനെ നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗെയിനിലൂടെ പോകാൻ അനുവദിച്ച് സോഴ്സ് ഡ്രൈവ് ചെയ്യുക നിരവധി ഓപ്ഷനുകൾ സാധ്യമാണ് ഒരു ഓപ് ആമ്പ് ഉപയോഗിച്ച് ഞാൻ ഒരു പ്രത്യേക ഓപ്ഷൻ ഉപയോഗിക്കും കൂടാതെ ഒരു ഓപ് ആമ്പ് നിങ്ങൾക്ക് പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നിന്നുള്ള പ്രസക്തമായ ലക്ച്ചർ മെറ്റീരിയലിലൂടെ പോകുക ഐഡിയൽ ഓപ് ആമ്പ് ഞാൻ ഇത് വളരെ ചുരുക്കമായി ഇവിടെ വിവരിക്കും ഇതിന് രണ്ട് ടെർമിനലുകൾക്കിടയിൽ ഇൻപുട്ട് Vd ഉണ്ട് ഇതിന് രണ്ട് ഇൻപുട്ട് ടെർമിനലുകളുണ്ട് ഡിഫറൻസ് വോൾട്ടേജിനെ Vd എന്ന് വിളിക്കുന്നു ഇൻപുട്ട് ടെർമിനലുകൾ പ്ലസ് മൈനസ് എന്നിവ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ഡിഫറൻസ് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജ് Vo യും ഇപ്പോൾ അതിന്റെ അർത്ഥമെന്താണ് ഒപ് ആമ്പിനെ നെഗറ്റീവ് ഫീഡ്ബാക്കായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ് ഒപ് ആമ്പിനു ചുറ്റും ചില സർക്യൂട്ടുകൾ ഉണ്ട് മറ്റൊന്നും കൂടാതെ നിങ്ങൾക്ക് സ്വയം ഒപ് ആമ്പ് ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ ഒപ് ആമ്പിന് ചുറ്റും ചില സർക്യൂട്ടുകൾ ഉണ്ട് Vo അതിലേക്ക് കണക്റ്റുചെയ്യുന്നു ഒപ്പം ഒപ് ആമ്പിന്റെ ഇൻപുട്ട് ടെർമിനലുകളും അതിലേക്ക് കണക്റ്റുചെയ്യുന്നു നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ അർത്ഥമെന്താണ് ഇതിനർത്ഥം ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം ബാക്കി സർക്യൂട്ട് എന്തായാലും Vo വർദ്ധിക്കുകയാണെങ്കിൽ Vd കുറയുന്നു എന്നാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിന് നെഗറ്റീവ് ഇൻക്രെമെന്റൽ ഗൈൻ ഉണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമായിരിക്കണമെന്നില്ല ഈ ബ്ലോക്കിന്റെ ഔട്ട്പുട്ടായ Vd ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് ഔട്ട്പുട്ടായും ഇത് ഇൻപുട്ടായും എടുക്കാമെന്ന് ഉറപ്പാക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇൻപുട്ട് വർദ്ധിച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് കുറയുന്ന തരത്തിൽ ഈ ബ്ലോക്ക് ഉണ്ടായിരിക്കണം അതായത് ഫീഡ്ബാക്ക് സർക്യൂട്ടിലൂടെ Vo വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ Vd കുറയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഒരു അനുയോജ്യമായ ഓപ് ആമ്പിൻറെ കാര്യത്തിൽ Vd പൂജ്യത്തിലേക്ക് പോകുന്നു അതായത് ഈ രണ്ട് ടെർമിനലുകളും തമ്മിലുള്ള വ്യത്യാസം ഓപ് ആമ്പ് വഴി പൂജ്യത്തിലേക്ക് തള്ളപ്പെടുന്നു Vd യുടെ പൂജ്യത്തിലേക്ക് തള്ളപ്പെടുന്ന ഈ ആശയം വെർച്വൽ ഷോർട്ട് എന്ന് വിളിക്കപ്പെടുന്നു ഇപ്പോൾ രണ്ട് നോഡുകൾ പരസ്പരം ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഒരേ വോൾട്ടേജിൽ ഉണ്ടാകും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ഒപ് ആമ്പിന്റെ കാര്യത്തിൽ ഈ രണ്ട് ടെർമിനലുകളും ഒരുമിച്ച് ഷോർട്ട് ആക്കില്ല അവയെ ബന്ധിപ്പിക്കുന്ന വയർ ഇല്ല എന്നാൽ ഈ ഒപ് ആമ്പും നെഗറ്റീവ് ഫീഡ്ബാക്കും ഒരുമിച്ച് ഈ രണ്ട് വോൾട്ടേജുകളും തുല്യമായിരിക്കാൻ നിർബന്ധിതമാക്കും അതാണ് ഓപ് ആമ്പ് ചെയ്യുന്നത് യഥാർത്ഥ ഓപ് ആമ്പിന്റെ കാര്യത്തിൽ Vd വളരെ ചെറുതായിത്തീരും പക്ഷേ കൃത്യമായി പൂജ്യമല്ല ഐഡിയൽ ഒപ് ആമ്പിന്റെ കാര്യത്തിൽ അത് പൂജ്യമായി മാറുന്നു ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഇവ കൂടുതൽ വിശദാംശങ്ങളിൽ വിവരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓപ് ആംപ് വിവരിച്ചിട്ടുള്ള ചില പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കാം അതിനാൽ ഫീഡ്ബാക്ക് പൂർത്തിയാക്കാൻ ഞാൻ ഈ ബ്ലോക്ക് ഉപയോഗിക്കാൻ പോകുന്നു ഞാൻ ചെയ്തത് ഞാൻ ഡ്രെയിൻ വോൾട്ടേജ് എടുത്ത് ഒപ് ആമ്പിന്റെ ഇൻപുട്ടുകളിലൊന്നിലേക്ക് നൽകി ഒപ് ആമ്പിന്റെ ഔട്ട്പുട്ട് ഉപയോഗിച്ച് സോഴ്സ് ഡ്രൈവ് ചെയ്യുക എന്നതാണ് ഒപ് ആമ്പിന്റെ മറ്റ് ഇൻപുട്ട് ഞാൻ അതിനെ Vd0 എന്ന് വിളിക്കുന്നു അടിസ്ഥാനപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ചില നിശ്ചിത ബയസ് വോൾട്ടേജാണ് ഇത് Vd0 ആണ് ഇപ്പോൾ സർക്യൂട്ട് എങ്ങനെ ക്രമീകരിക്കണം വ്യക്തമായും ഒന്നാമതായി ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കുള്ള ഇൻക്രെമെന്റൽ ഗെയിൻ നെഗറ്റീവ് ആയിരിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ ഇത് നെഗറ്റീവ് ടെർമിനലായി ദൃശ്യമാകുന്നതിനാൽ ഇടതുവശത്തുള്ള ടെർമിനൽ നെഗറ്റീവ് ടെർമിനലായിരിക്കണം ഒപ് ആമ്പിന്റെ വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾക്ക് ഇത് പരിശോധിക്കാനും കഴിയും നിങ്ങൾ അതേ നിഗമനത്തിലെത്തും അതിനാൽ എന്താണ് സംഭവിക്കേണ്ടത് Vd വർദ്ധിക്കുകയാണെങ്കിൽ Vs കുറയ്ക്കണം അങ്ങനെ ഒപ് ആമ്പിന്റെ അർത്ഥം അങ്ങനെയായിരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നു ഇപ്പോൾ ഒപ് ആമ്പിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് വിവരിച്ചതനുസരിച്ച് ഈ പൊളാരിറ്റിയിൽ ഡിഫറൻസ് വോൾട്ടേജ് VD0 VD ആണ് ബാക്കിയുള്ള സർക്യൂട്ടിനെ ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യും ഈ സമയം മുതൽ ഇതാണ് ഞാൻ Vs എന്ന് വിളിക്കുന്ന ഒപ് ആമ്പിന്റെ ഔട്ട്പുട്ട് ഇപ്പോൾ Vs വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും ഇവിടെ ഈ ID യഥാർത്ഥത്തിൽ കുറയും കാരണം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് കുറയുന്നു അത്തരം സന്ദർഭങ്ങളിൽ I0 മൈനസ് ID ഈ കപ്പാസിറ്ററിലേക്ക് ഒഴുകുകയും ഡ്രെയിൻ വോൾട്ടേജ് ഉയർത്തുകയും ചെയ്യും ഡ്രെയിൻ വോൾട്ടേജ് വർദ്ധിക്കുന്നു ഒപ് ആമ്പിന്റെ ഡിഫറൻസ് വോൾട്ടേജ് ഒപ് ആമ്പിന്റെ അടയാളങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒപ് ആമ്പിന്റെ വോൾട്ടേജിലെ വ്യത്യാസം VD0 VD ആണ് ഇത് കുറയുന്നു അതിനാൽ ഇത് ശരിയായ അർത്ഥത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിനായുള്ള ഒപ് ആമ്പിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്ന രീതി നിങ്ങൾ ഒരുതരം അടയാളങ്ങൾ എടുക്കുകയും തുടർന്ന് നിങ്ങൾ ചുറ്റും പ്രവർത്തിക്കുകയും Vo വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ഡിഫറൻസ് വോൾട്ടേജ് കുറയുന്നുണ്ടോയെന്നും കാണുക അതിനാൽ VS കൂടുന്നതിനനുസരിച്ച് ഞാൻ ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ID കുറയുകയും അത് ഡ്രെയിൻ വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് വ്യത്യാസം വോൾട്ടേജ് Vd ആക്കും ഇവിടെ ഈ Vd കുറയുന്നു അതിനാൽ ഇത് നെഗറ്റീവ് ഫീഡ്ബാക്കിലാണ് അതിനാൽ ഒപ് ആമ്പിന്റെ ശരിയായ അടയാളങ്ങൾ അങ്ങനെയാണ് അതിനാൽ നിരന്തരമായ കറന്റ് I0 ൽ ഡ്രെയിനിൽ സെൻസ് ചെയ്തും സോഴ്സിൽ ഫീഡ്ബാക്ക് ചെയ്തും ഒരു ട്രാൻസിസ്റ്ററിന്റെ ബയസ് കാണിക്കുന്നതിനുള്ള മാർഗ്ഗമാണിത്